ഇപ്പോൾ നമുക്ക് കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്താണെന്ന് മനസിലായി കൂടാതെ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് ഉണ്ടാക്കുന്ന പരിമിതികളും മനസിലായി ഇനി ഈ പാഠത്തിൽ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെയും പൊതുവായി എല്ലാ ആംപ്ലിഫയറുകളുടെയും ചില പ്രായോഗിക വശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഒരു ട്രാൻസിസ്റ്ററിന്റെ അല്ലെങ്കിൽ പൊതുവേ ഏതെങ്കിലും ഒരു ആക്ടിവ് ഡിവൈസ് സെമികണ്ടക്ടർ ഡിവൈസിന്റെ പാരാമീറ്ററുകൾ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനസിലാക്കേണ്ടത് അതായത് ധാരാളം ട്രാൻസിസ്റ്ററുകളിൽ ഒരേ കറൻറ് ഫാക്ടറും ഒരേ ത്രെഷോൾഡ് വോൾട്ടേജും ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും എന്നു നിങ്ങൾക്ക് മനസിലാകും വാസ്തവത്തിൽ അവ പരസ്പരം വ്യത്യസപ്പെട്ടിരിക്കും മാത്രവുമല്ല ഇത് ഒരു നിർമ്മാണ ബാച്ചിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്തവുമാണ് പല സെമികണ്ടക്ടർ സ്വഭാവസവിശേഷതകളെയും പോലെ ഇവയും താപനിലയുടെ സ്ട്രോങ് ഫംഗ്ഷൻ ആണ് ഇപ്പോൾ ആംപ്ലിഫയർ പെർഫോമൻസിൽ ഇവയ്ക് ചില സ്വാധീനം ചെലുത്താനാകും അത് എന്താണെന്ന് നമുക്ക് ആദ്യം കാണാം കൂടാതെ സാധ്യമായ പരിധി വരെ ഇവ പരിഹരിക്കുന്നതിനായുള്ള ടെക്നിക്കുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യാം ട്രാൻസിസ്റ്റർ ചില ഓപ്പറേറ്റിംഗ് പോയിന്റുകളിൽ ആണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം ഇതിന് ചില V G S കുറച്ച് V D S കൂടാതെ ഒരു നിശ്ചിത I D എന്നിവയുണ്ട് ഇപ്പോൾ ഈ g mന്റെ സ്മോൾ സിഗ്നൽ പാരാമീറ്ററുകൾ mu n C ox W L VGS മൈനസ് V T ആണെന്ന് നമുക്കറിയാം വീണ്ടും ഞാൻ ഈ വൺ പ്ലസ് ലാംഡ V D S പദം അവഗണിക്കുകയാണ് കൂടാതെ ഔട്ട്പുട്ട് കണ്ടക്റ്റൻസ് g d s ലാംഡാ ഗുണനം I D ആണ് അതിനാൽ ഇതൊക്കെയാണ് സ്മോൾ സിഗ്നൽ ഇക്യുവാലെൻറ് സർക്യൂട്ടിന്റെ പാരാമീറ്ററുകൾ ഈ സ്മോൾ സിഗ്നൽ സർക്യൂട്ടിൽ നമുക്ക് gm VGS ഉണ്ടാകും ഇവിടെ ഇതാണ് ഇൻക്രിമെന്റൽ VGS കൂടാതെ നമുക്ക് g d s എന്ന കണ്ടക്റ്റൻസുമുണ്ട് ഇപ്പോൾ നമ്മുടെ കോമൺ സോർസ് ആംപ്ലിഫയറിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ് സജ്ജീകരിച്ചത് അടിസ്ഥാനപരമായി നമ്മൾ കണ്ടെത്തിയ V G Sൽ നിന്നു നമുക്ക് ഒരു നിശ്ചിത g m വേണം കൂടാതെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് നിശ്ചയിച്ച രീതി VGSനെ ആവശ്യമുള്ള മൂല്യത്തിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അതിനാൽ നമ്മുടെ സർക്യൂട്ട് ഇതുപോലെയായിരുന്നു ഞാൻ പൂർണ്ണ സർക്യൂട്ട് വരയ്ക്കുന്നില്ല മറിച്ച് VGS നെ ഫിക്സ് ചെയ്യുന്ന ഭാഗം മാത്രമാണ് വരയ്ക്കുന്നത് നമ്മുടെ ഈ ഉദാഹരണത്തിൽ നമുക്ക് ഒരു 23 വോൾട്ട് സപ്ലെയും കൂടാതെ ഓപ്പറേറ്റിംഗ് പോയിൻറ് V G S 3 വോൾട്ടിന് തുല്യമായിരുന്ന റെസിസ്റ്ററുകളുടെ ഒരു ഉചിതമായ അനുപാതവും ഉണ്ടായിരുന്നു നമ്മൾ VGS നെ 3 വോൾട്ടായി ഫിക്സ് ചെയ്തു അതിനാൽ ഇത്തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ നോക്കാം അതിനാൽ g m എന്നു പറയുന്നത് mu n C ox W L V G S മൈനസ് V T ആണ് പതിവുപോലെ ഞാൻ ത്രെഷോൾഡ് വോൾട്ടേജ് 1 volt ആയി എടുക്കുന്നു കൂടാതെ mu n C ox W L എന്നു പറയുന്നത് 100 മൈക്രോ ആമ്പിയർ വോൾട്ട് സ്ക്വയർ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിൽ ഇത് 3 volts ആയി നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ കൃത്യമായി നിങ്ങൾ ഇത് കണക്കാക്കുകയാണെങ്കിൽ ഇത് 200 മൈക്രോ സീമെൻസായി കിട്ടും അതാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇതില് നിന്ന് ഒരു ട്രാൻസിസ്റ്ററിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ് ഗണ്യമായി വ്യത്യാസപ്പെടാമെന്ന് മനസിലായി അതിനാൽ ഇത് 0 8 volts മുതൽ 1 2 volts വരെ വ്യത്യാസപ്പെടുന്നുവെന്ന് പറയാം ഇത് ഇതിനേക്കാൾ കൂടുതൽ വ്യത്യാസപ്പെടാം അതിനാൽ V T 0 8 volts ആണെങ്കിൽ കറൻറ് ഫാക്ടർ ഒട്ടും മാറില്ലെന്ന് പറയാം എന്ത് സംഭവിക്കുമെന്നാൽ ഈ V G S V T എന്നുപറയുന്നത് 3 വോൾട്ട് മൈനസ് 0 8 ആയിരിക്കും ഇത് 2 2 volts ആണ് അതിനാൽ ഈ g m 220 മൈക്രോ സീമെൻസായി മാറും അതിനാൽ ഞാൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ സർക്യൂട്ടിൽ V G S ഫിക്സ് ചെയ്തു നമ്മുടെ ട്രാൻസിസ്റ്ററിൽ V T 1 വോൾട്ട് ആണെന്ന് നമ്മൾ കരുതി എന്നാൽ ആർക്കറിയാം നിങ്ങൾ ധാരാളം ട്രാൻസിസ്റ്ററുകൾ വാങ്ങുമ്പോൾ ഇത് 0 8 volts അല്ലെങ്കിൽ അതിലും ചെറുതായിരിക്കും എന്നത് അതിനാൽ VT 0 8 volt വച്ച് നിങ്ങൾ ഒരു ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 220 മൈക്രോ സീമെൻസ് ലഭിക്കും അതുപോലെ V T 1 2 വോൾട്ട് ആണെങ്കിൽ V G S V T ആവശ്യമുള്ള വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും ഇത് 1 8volts ആണ് കൂടാതെ g m 180 മൈക്രോ സീമെൻസ് ആയിരിക്കും അതിനാൽ ഇരുനൂറിനുപകരം നമുക്ക് 220 അല്ലെങ്കിൽ 180 അല്ലെങ്കിൽ ഇതിനിടയിലുള്ള ഒരു വാല്യൂ ആണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ mu n Cox ലെ വ്യതിയാനങ്ങൾ പോലും നമ്മൾ കണക്കിലെടുത്തിട്ടില്ല അതിനാൽ mu n C ox വ്യത്യാസപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഒരു 10 എന്ന് പറയാം അത് പത്ത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ g m ഉം 10 ശതമാനത്തിൽ കൂടുതൽ വർദ്ധിക്കും അതുപോലെ തന്നെ ഈ വാല്യൂ 10 ശതമാനം കുറയുകയാണെങ്കിൽ g m ഉം 10 ശതമാനം കുറയും അടിസ്ഥാനപരമായി gm എന്നത് mu n C ox W L നും കൂടാതെ mu n C ലെ ഏതെങ്കിലും വ്യതിയാനങ്ങൾക്കും ആനുപാതികമാണ് ഞാൻ പറഞ്ഞതുപോലെ mu n എന്നത് സെമികണ്ടക്ടറിന്റെ ചലനാത്മകതയാണ് താപനിലയ്ക് അനുസരിച്ച് ഇത് കുറച്ച് വ്യതിചലിക്കുകയും ചെയ്യും അതിനാൽ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് V T യുടെ മൂല്യം കൃത്യമായി അറിയില്ലായിരിക്കാം രണ്ടാമത്തേത് ട്രാൻസിസ്റ്റർ വാങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും VT അളക്കുകയും നിങ്ങളുടെ ആംപ്ലിഫയർ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുക എന്ന ശ്രമകരമായ ഒരു മാർഗമാണ് അതും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല കാരണം ഇതൊക്കെ താപനിലയ്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും അതിനാൽ നിങ്ങളിത് റൂം താപനിലയിലാണ് അളക്കുന്നതെന്ന് വിചാരിക്കുക ഈ പ്രത്യേക കേസ് എടുക്കാം V T 0 8volt മാത്രമാണ് അതിനാൽ 200 മൈക്രോ സീമെൻസ് ലഭിക്കാൻ നിങ്ങൾ ആവശ്യമുള്ള V G S കണക്കാക്കുന്നു തുടർന്ന് ആ V G S ഉപയോഗിക്കുക എന്നാൽ അത് സഹായിക്കില്ല കാരണം V T താപനിലയോടൊപ്പം മാറുകയാണെങ്കിൽ ഈ g m വ്യതിചലിക്കും താപനിലയ്ക് അനുസരിച്ച് ഇത് മാറുകയും ചെയ്യും അതുപോലെതന്നെ കറൻറ് ഫാക്ടർ താപനിലയ്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും gm താപനിലയ്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കുന്നതിന് നമുക്ക് കൂടുതൽ ശക്തമായ ഒരു മാർഗം ആവശ്യമാണ് അതുവഴി g m ഇപ്പോൾ ഉള്ളതുപോലെ വ്യത്യാസപ്പെടാതിരിക്കണം